ഈ പ്രഭാഷണത്തിലും തുടർന്നുള്ള മൊഡ്യൂളുകളിലും എന്താണെന്നും വ്യവസായങ്ങളെ ഇൻഡസ്ട്രി 4 0 ലേക്ക് മാറ്റുന്നതിനായി സംഭവിക്കുന്ന വിപ്ലവത്തിലെ വ്യത്യസ്ത മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു ഇൻഡസ്ട്രി 4 0 അടിസ്ഥാനപരമായി വ്യവസായങ്ങളിലെ നാലാമത്തെ വിപ്ലവവുമായി യോജിക്കുന്നു വിപ്ലവം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പദത്തിന്റെ ഇംഗ്ലീഷ് അർത്ഥം അടിസ്ഥാനപരമായി സമൂല മാറ്റം ആണ് കാര്യങ്ങൾ സംഭവിക്കുന്ന രീതി രൂപാന്തരപ്പെടുത്തുന്നതിന് ചില പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലെ പെട്ടെന്നുള്ള മാറ്റം അതാണ് വിപ്ലവം കഴിഞ്ഞ കാലത്തെ വിപ്ലവങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരിച്ചു പോയാൽ നമ്മുടെ മുൻഗാമികൾ ഭക്ഷണം ശേഖരിക്കുന്ന രീതികൾ ഉപയോഗിച്ചിരുന്നു അടിസ്ഥാനപരമായി ഭക്ഷണം ശേഖരിക്കാനും അവ കൊണ്ടുവരാനും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളായ പഴങ്ങൾ പച്ചക്കറികൾ മുതലായവയിലൂടെ ഭക്ഷണം കഴിക്കാനും അവർ കണ്ടെത്തിയിരുന്നു കൂടാതെ മേയുന്ന സ്വഭാവം കൃഷിയിലേക്ക് മാറ്റി വ്യത്യസ്ത വിളകൾ വളർന്നു വ്യത്യസ്ത പച്ചക്കറി ചെടികൾ വ്യത്യസ്ത പഴങ്ങൾ ഭക്ഷ്യ തോട്ടങ്ങൾ തുടങ്ങി തീറ്റയിൽ നിന്ന് കൃഷിയിലേക്കുള്ള ഈ പരിവർത്തനത്തിന്റെ ഫലം ഉത്പാദനം വർദ്ധിപ്പിക്കുകയും വ്യത്യസ്ത മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിക്കുകയും ചെയ്തു ജനസംഖ്യാ വളർച്ച വർദ്ധിച്ചപ്പോൾ ഭക്ഷ്യ ഉൽപാദനത്തിൽ വളർച്ചയുണ്ടായി 10000 വർഷങ്ങൾക്ക് മുമ്പത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് പുതിയ സാങ്കേതികവിദ്യകൾ പുതിയ യന്ത്രങ്ങൾ ഉത്പാദിപ്പിക്കപ്പെട്ടു ഉൽപാദന പ്രക്രിയകൾക്കുള്ള പുതിയ സമീപനങ്ങൾ അവതരിപ്പിച്ച വ്യാവസായിക വിപ്ലവം വന്നു ഇത് ലളിതമായ കാർഷിക കേന്ദ്രീകൃത സമ്പദ്വ്യവസ്ഥകളുള്ള പ്രാകൃത സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് കൂടുതൽ ആക്രമണാത്മക യന്ത്രാധിഷ്ഠിത ഉൽപാദന സംവിധാനങ്ങളിലേക്ക് സമ്പദ്വ്യവസ്ഥയെ മാറ്റി അതായിരുന്നു വ്യാവസായിക വിപ്ലവം തൽഫലമായി സാമ്പത്തിക മാതൃകകൾ മാറി സാമൂഹിക വാസ്തുവിദ്യ വ്യവസായങ്ങളിലെ വിപ്ലവം പുതിയ സാങ്കേതികവിദ്യകൾ പുതിയ സമീപനങ്ങൾ എന്നിവയിലൂടെ എല്ലാം മാറി വ്യാവസായിക വിപ്ലവം വീണ്ടും വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി 1760 മുതൽ 1840 വരെ ഇത് ആദ്യത്തെ വ്യാവസായിക വിപ്ലവമായിരുന്നു ഈ ആദ്യത്തെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് നീരാവി എഞ്ചിന്റെ കണ്ടുപിടിത്തത്തോടെയാണ് ട്രെയിനുകളുടെ വരവ് ചലനശേഷി വർദ്ധിപ്പിച്ചു റെയിൽവേ നിർമ്മാണം മൊത്തത്തിലുള്ള വിപ്ലവത്തെ ഉത്തേജിപ്പിച്ചു അങ്ങനെ 1760 മുതൽ 1840 വരെയുള്ള ആദ്യ വ്യാവസായിക വിപ്ലവകാലത്ത് ഉൽപാദനത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് കാരണമായി 19 ആം നൂറ്റാണ്ടിൽ നിന്ന് 20 ആം നൂറ്റാണ്ടിലേക്കുള്ള പരിവർത്തനത്തിനിടയിൽ രണ്ടാമത്തെ വ്യാവസായിക വിപ്ലവം വന്നു വൈദ്യുതിയുടെ വരവോടെ സമൂഹത്തിൽ വൈദ്യുതി വർദ്ധിച്ചു ഇത് വൻതോതിലുള്ള ഉൽപാദനത്തിന് കാരണമായി യന്ത്രങ്ങൾക്ക് വലിയ അളവിലും വേഗത്തിലുള്ള ഉൽപാദനത്തിനും വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും പിന്നീട് 1960 കളിലും മറ്റും ഉണ്ടായ മൂന്നാമത്തെ വ്യാവസായിക വിപ്ലവം വന്നു ആ സമയത്താണ് കമ്പ്യൂട്ടറുകൾ മുതലായവ വർദ്ധിച്ചതോടെ വ്യവസായങ്ങളിലും പരിവർത്തനം സംഭവിച്ചു വ്യവസായത്തിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യകളുടെ ഉപയോഗം വർദ്ധിച്ചു ഡിജിറ്റലൈസേഷനിലും മറ്റും കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം മറ്റൊരു വിപ്ലവമായിരുന്നു മൂന്നാമത്തെ വ്യാവസായിക വിപ്ലവം ഇത് വ്യവസായത്തിലെ ചരക്കുകളുടെ ഉത്പാദനം വീണ്ടും വർദ്ധിപ്പിച്ചു കമ്പ്യൂട്ടറുകളുടെ വളർച്ചയ്ക്ക് ഏതാണ്ട് സമാന്തരമായിരുന്ന സെമികണ്ടക്ടറുകളുടെയും സെമികണ്ടക്റിങ് വ്യത്യസ്ത മെഷിനറികളിലും ഇൻഡസ്ട്രിയിലെ നിർമ്മാണ പ്രക്രിയകളിലും ആമുഖമായിരുന്നു നാലാമത്തെ വ്യാവസായിക വിപ്ലവം ഉള്ള വ്യക്തിഗത വ്യവസായങ്ങൾ എല്ലാം മൂന്നാം വ്യാവസായിക വിപ്ലവത്തിലൂടെയാണ് എന്നാൽ നമുക്ക് എങ്ങനെ ഉത്പാദനം കൂടുതൽ വേഗത്തിൽ മെച്ചപ്പെടുത്താനും പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കഴിയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് ആളുകൾ ചിന്തിച്ചു വ്യത്യസ്ത സെൻസറുകളും സെൻസിംഗ് സാങ്കേതികവിദ്യകളും ഉണ്ടായിരുന്നു അവ വളരെ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഇൻഫ്രാസ്ട്രക്ചർ ഐടി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കൊപ്പം സെൻസറുകൾ ആക്യുവേറ്ററുകൾ ഇൻറർനെറ്റ് മറ്റും മാറ്റാൻ കഴിഞ്ഞു നാലാമത്തെ വ്യാവസായിക വിപ്ലവമായിരുന്നു ഈ നിമിഷം നമ്മൾ കടന്നുപോകുന്ന നാലാമത്തെ വ്യാവസായിക വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രി 4 0 ആണ് ഇത് ഈ ഇൻഡസ്ട്രി 4 0 അല്ലെങ്കിൽ നാലാമത്തെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു സെൻസറുകളും ആക്യുവേറ്ററുകളും വലുപ്പത്തിൽ വളരെ ചെറുതും വിലകുറഞ്ഞതും ശക്തവുമാണ് ചെറിയ വലുപ്പത്തിലുള്ള സെൻസറുകൾ ആക്യുവേറ്ററുകൾ കൂടുതൽ ശക്തമായ ഇന്റർനെറ്റ് ഐടി ഇൻഫ്രാസ്ട്രക്ചർ ഒപ്പം സ്വയംഭരണ നിരീക്ഷണം കൃത്രിമബുദ്ധി മെഷീൻ ലേണിംഗ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രി 4 0ൽ സാങ്കേതികവിദ്യകളുടെ ഉപയോഗം അടിസ്ഥാനപരമായി ഈ പരിവർത്തനം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതാണ് കമ്പ്യൂട്ടറുകൾ കൂടുതൽ സങ്കീർണ്ണമായി അവ വലുപ്പത്തിൽ ചെറുതാണ് പക്ഷേ കൂടുതൽ ശക്തമാണ് ഊർജ്ജ ഉപഭോഗം കുറവാണ് ഈ കമ്പ്യൂട്ടറുകൾ സംയോജിപ്പിച്ച് ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ കഴിയും ഇത് ആഗോള സമ്പദ്വ്യവസ്ഥകളുടെയും സമൂഹങ്ങളുടെയും വ്യത്യസ്ത വ്യവസായങ്ങളുടെയും സമൂലമായ പരിവർത്തനത്തിന് കാരണമായി നാലാമത്തെ വ്യാവസായിക വിപ്ലവം ഈ പദം എംഐടിയിൽ നിന്നുള്ള പ്രൊഫസർ എറിക് അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആൻഡ്രൂ മക്കാഫി എന്നിവർ രണ്ടാമത്തെ യന്ത്ര യുഗമായി ഉപയോഗിച്ചു ഇൻഡസ്ട്രി 4 0 ഇത് വ്യാവസായിക നാലാമത്തെ വ്യാവസായിക വിപ്ലവത്തിന്റെ പര്യായമാണ് ഇൻഡസ്ട്രി 4 0 എന്ന പദം 2011 ൽ ജർമ്മനിയിൽ നടന്ന ഹാനോവർ മേളയിൽ ഉപയോഗിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2011 ൽ എല്ലാം ആരംഭിച്ചു ഇപ്പോൾ വ്യവസായങ്ങളിൽ ഇത്തരത്തിലുള്ള പരിവർത്തനത്തിലൂടെ സെൻസറുകൾ ആക്റ്റേറ്ററുകൾ കമ്പ്യൂട്ടറുകൾ ഐടി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സഹായത്തോടെ കൂടുതൽ കാര്യക്ഷമമായ ഒന്ന് വലുപ്പത്തിൽ ചെറുതും വിലകുറഞ്ഞതും എല്ലാം ഒന്നിച്ച് ബന്ധിപ്പിച്ചതും ഈ നാലാമത്തെ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു അപ്പോൾ നാലാമത്തെ വ്യാവസായിക വിപ്ലവത്തിന്റെ വ്യാപ്തി എന്താണ് സ്മാർട്ട് കണക്റ്റഡ് മെഷീനുകൾ ഇന്റർനെറ്റ് വർക്ക് കമ്മ്യൂണിക്കേഷൻ വ്യത്യസ്ത സ്റ്റാൻഡേർഡ് മെഷിനറികൾ ബന്ധിപ്പിക്കൽ സാധാരണയായി എല്ലാ ഐടി ഡ്രൈവ് കമ്പ്യൂട്ടർ ഡ്രൈവ് സ്മാർട്ട് എന്നതിനർത്ഥം സ്മാർട്ട്നസിനായി നമ്മൾ വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു നമുക്ക് സ്വയംഭരണ സ്വഭാവമുള്ള കാര്യങ്ങൾ ആവശ്യമാണ് അത് കണ്ടെത്താനും തിരുത്താനും ഒരു സ്വയംഭരണാധികാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും ചെറുതും വിലകുറഞ്ഞതും ഊർജ്ജ കാര്യക്ഷമവുമായ സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും ആമുഖം യന്ത്രങ്ങളും കണക്റ്റുചെയ്ത മെഷീനുകളും മികച്ചതാക്കാൻ സാധ്യമാക്കി സ്മാർട്ട് ഫാക്ടറികൾ അടിസ്ഥാനപരമായി ലളിതമായ യന്ത്രസാമഗ്രികൾക്കപ്പുറം സമാനമായ ആശയമാണ് എന്നാൽ മുഴുവൻ ഫാക്ടറി പ്രവർത്തനങ്ങളും ഫാക്ടറിയിലെ യന്ത്രസാമഗ്രികളും ഉണ്ട് ഇവയെല്ലാം വ്യവസായങ്ങളിൽ കണക്റ്റുചെയ്ത സെൻസറുകൾ കണക്റ്റുചെയ്ത മെഷീനുകൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നതിലൂടെ മികച്ചതാക്കി നാനോ ടെക്നോളജി അങ്ങനെ നാനോ ടെക്നോളജിയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗും ഒരുമിച്ച് പാക്കേജുചെയ്തതെല്ലാം ഇൻഡസ്ട്രി 4 0 എന്ന നാലാമത്തെ വ്യാവസായിക യുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന് സഹായിക്കുന്നു നാലാമത്തെ വ്യാവസായിക വിപ്ലവത്തിൽ അഗാധവും വ്യവസ്ഥാപിതവുമായ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റം ഇന്നോവേഷൻ ഡിസ്റപ്ഷനിൽ അവതരിപ്പിച്ചു ഈ ഡിസ്റപ്ഷൻ ഇന്നോവേഷൻ സ്കെയിലിലും വ്യാപ്തിയിലും സംഭവിച്ചിട്ടുണ്ട് വ്യാപ്തി ബഹുവിധം വർദ്ധിച്ചു നാലാമത്തെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഇന്നോവേഷൻന്റെ വ്യാപ്തിയും അടിസ്ഥാനപരമായി ഇന്നത്തെ സാങ്കേതികവിദ്യകളിലെ തീവ്രമായ ഡിസ്റപ്ഷൻ ഇന്നോവേഷൻ അതിനനുസരിച്ച് വ്യവസായങ്ങളുടെ പരിവർത്തനവും നിർവ്വചിച്ചിട്ടുണ്ട് ആലിബാബ പോലുള്ള കമ്പനികൾ യൂബർ എയർബിഎൻബി ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കമ്പനികൾ ഈ കമ്പനികളെല്ലാം മുൻകാലങ്ങളിൽ പ്രവർത്തനം ഡെലിവറി എന്നിവ നടത്തിക്കൊണ്ടിരുന്ന വിധം മാറ്റുകയാണ് എല്ലാം ഇപ്പോൾ സംഭവിക്കുന്ന രീതി മാറ്റി ക്ലൌഡ് സെൻസർ നെറ്റ്വർക്കുകൾ ഡ്രോണുകൾ വ്യവസായങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും മാറ്റുന്നതിനായി മറ്റ് നിരവധി സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഈ കമ്പനികൾ പ്രവർത്തിക്കുന്ന പുതിയ വഴികൾ ഇവയാണ് ഉദാഹരണത്തിന് ഐഫോൺ 2007 ൽ ആരംഭിച്ചു എന്നാൽ അതിനുശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ശതകോടിക്കണക്കിന് സ്മാർട്ട്ഫോണുകൾ നിലവിൽ വൻതോതിൽ നിർമ്മിക്കപ്പെടുന്നു ഈ സാങ്കേതികവിദ്യകളുടെ ഈ തടസ്സവും നുഴഞ്ഞുകയറ്റവും എങ്ങനെ സംഭവിക്കുന്നുവെന്നും അവ എത്ര വേഗത്തിൽ സംഭവിക്കുന്നുവെന്നും അവ ഏത് സ്കെയിലിൽ ശരിയാണെന്നും നിങ്ങൾ കാണുന്നു ഇവയെല്ലാം ഈ നാലാമത്തെ വ്യാവസായിക കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെയും വ്യവസ്ഥാപിതവും അഗാധവുമായ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന വ്യത്യസ്ത പ്രതിഭാസങ്ങൾ പോലെയാണ് ഗൂഗിൾ ചെയ്യുന്ന കാറുകൾ പൂർണ്ണമായും സ്വയംഭരണാധികാരമുള്ള കാറുകൾ ഇതിനകം റോഡുകളിലുണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടു കൃത്രിമബുദ്ധി മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതികവിദ്യകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതും വളരെ പ്രധാനമാണ് അത് ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതികവിദ്യകൾ യാഥാർത്ഥ്യമാക്കുന്നു മാറ്റത്തിന്റെ വേഗത മാത്രമല്ല മാറ്റത്തിന്റെ വ്യാപ്തിയും അഗാധമായ മാറ്റവും രണ്ടും വളരെ തുല്യ പ്രാധാന്യമുള്ളതും അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അതിനാൽ 1990 കളിലേക്ക് തിരിച്ചുപോകുന്നത് പോലെ മൂലധനങ്ങളുടെ കാര്യത്തിൽ 36 ബില്യൺ ഡോളർ പ്രദേശത്ത് വ്യത്യസ്ത വ്യവസായ ഭീമന്മാർ ഉണ്ടായിരുന്നു അവരുടെ മൊത്തം വരുമാനം ഏകദേശം 250 ബില്യൺ യുഎസ് ഡോളർ ആയിരുന്നു ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം ഏകദേശം 1 2 ദശലക്ഷമായിരുന്നു 2014 ൽ നിങ്ങൾ സിലിക്കൺ വാലിയിൽ സംയോജിത വിപണി ഉണ്ടായിരുന്നു അതിനാൽ മൂലധനം പല മടങ്ങ് വർദ്ധിച്ചു മറുവശത്ത് 1990 കളിൽ സിലിക്കൺ വാലി പ്രദേശത്ത് ഡെട്രോയിറ്റ് മേഖലയിലെ ഈ വ്യവസായ ഭീമന്മാരുമായി നിങ്ങൾ താരതമ്യം ചെയ്താൽ ജീവനക്കാരുടെ എണ്ണം 137000 മാത്രമായിരുന്നു വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന മനുഷ്യശക്തിയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് 1 2 ദശലക്ഷം ജീവനക്കാർ മുതൽ 1 37 ലക്ഷം ജീവനക്കാർ വരെ ഉപയോഗിക്കുന്നു മറുവശത്ത് മൂലധനം പല മടങ്ങ് വർദ്ധിച്ചു തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതോടെ മൂലധനവൽക്കരണത്തിന്റെയും വ്യവസായങ്ങളുടെ വളർച്ചയുടെയും മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും തൽഫലമായി വ്യത്യസ്ത വിൽപ്പനകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വർദ്ധിച്ചു കുറഞ്ഞ ചെലവിൽ ഡിജിറ്റൽ ബിസിനസ്സ് കുറച്ച് തൊഴിലാളികളുമായി ഇന്നത്തെ സമ്പത്തിന്റെ ഒരു യൂണിറ്റ് സൃഷ്ടിക്കുന്നു സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷേ കുറച്ച് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അത് ഡിജിറ്റലൈസേഷൻ അവതരിപ്പിച്ചതോടെ സാധ്യമായി വാസ്തവത്തിൽ പൂജ്യം ഗതാഗതവും തനിപ്പകർപ്പ് ചെലവും ഉള്ള വിവര സാധനങ്ങൾ ബിസിനസ്സ് നൽകുന്നു Instagram WhatsApp Facebook Twitter പോലുള്ള കമ്പനികൾ പരിഗണിക്കുക വിവര കേന്ദ്രീകൃത ഉൽപ്പന്നങ്ങളും സാധനങ്ങളും നൽകാൻ അവർക്ക് കഴിയും ഏതാണ്ട് പൂജ്യം ഗതാഗത ചെലവ് ഉൾപ്പെടുന്നു അത് ധാരാളം മൂലധന സാമഗ്രികൾ ഉള്ള നിർമ്മാണ വ്യവസായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ധാരാളം ഗതാഗത ചെലവുകൾ ഉൾപ്പെടുന്നു ലോജിസ്റ്റിക്സ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് അയയ്ക്കുന്നു ഡിജിറ്റലൈസേഷന്റെയും നൂതന ഐടിയുടെയും മറ്റ് സാങ്കേതികവിദ്യകളുടെയും ആമുഖത്തിലേക്കുള്ള പരിവർത്തനം ഈ വ്യവസായ 4 0 വിപ്ലവത്തിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇൻഡസ്ട്രി 4 0 ന്റെ ഈ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ ടെക്നോളജികൾക്ക് നമുക്ക് വ്യത്യസ്ത സെൻസറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സെൻസറുകൾക്കും മറ്റ് നൂതന സാങ്കേതികവിദ്യകൾക്കും പുറം ലോകവുമായി ആശയവിനിമയം നടത്താൻ കഴിയും അതായത് മനുഷ്യർക്ക് പുറത്ത് അടിസ്ഥാനപരമായി മനുഷ്യൻ കടന്നുപോകാതെ അല്ലെങ്കിൽ മനുഷ്യനോ രോഗിയോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒരു മനുഷ്യനുള്ളിൽ ചില ശാരീരിക പ്രവർത്തനങ്ങൾ നടത്താൻ വിദൂര സിഗ്നലുകൾ മനുഷ്യശരീരത്തിലേക്ക് അയയ്ക്കുന്നത് ഇപ്പോൾ സാധ്യമാണ് ഈ പുതിയ സാങ്കേതികവിദ്യകളുടെ ആമുഖത്തോടെ ഈ കാര്യങ്ങൾ സാധ്യമാണ് തൽഫലമായി ഈ നാലാമത്തെ വ്യാവസായിക വിപ്ലവം ജൈവ വ്യവസ്ഥകളുടെ പരിവർത്തനം ഫിസിയോളജിക്കൽ സംവിധാനങ്ങൾ എന്നിവയിൽ പരിവർത്തനം സാധ്യമാണ് ഇപ്പോൾ മനുഷ്യശരീരത്തിനുള്ളിലെ ജൈവ തന്മാത്രകളുടെ പ്രവർത്തനരീതി കൈകാര്യം ചെയ്യാനും സാധിക്കും ശരീരത്തിലെ വ്യത്യസ്ത ജീനുകളെ ക്രമീകരിക്കാൻ സാധിക്കും ഒരു ശരീരത്തിനുള്ളിൽ ഡിഎൻഎ കൈകാര്യം ചെയ്യാനും സാധിക്കും ഈ വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ ഐടി ബയോടെക്നോളജി നാനോ ടെക്നോളജി ക്വാണ്ടം ടെക്നോളജി എന്നിവയുടെ ആമുഖത്തോടെയുള്ള അഗാധമായ മാറ്റം കാരണം ഈ കാര്യങ്ങൾ സാധ്യമാണ് ഡിസൈനർമാരും ആർക്കിടെക്റ്റുകളും ഇപ്പോൾ സംയോജിച്ച് ഡിസൈൻ അഡിറ്റീവ് നിർമ്മാണം മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് സിന്തറ്റിക് ബയോളജി തുടങ്ങിയവ നിർമ്മിക്കുന്നു തൽഫലമായി വസ്തുക്കളുടെ എണ്ണത്തിന്റെ ഉൽപാദനത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയും വസ്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ഈ വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കും കൂടാതെ ഈ വസ്തുക്കളും നിർമ്മിക്കപ്പെടുന്നു കാരണം ഈ വ്യത്യസ്ത തരം സാങ്കേതികവിദ്യകളുടെ ഉപയോഗം ഈ ഉൽപ്പന്നങ്ങൾ പരിവർത്തനം ചെയ്യുന്നത് ഇപ്പോൾ എളുപ്പമാണ് കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ അവയുടെ പ്രവർത്തന പരിതസ്ഥിതിയിലെ വ്യത്യസ്ത മാറ്റങ്ങൾക്ക് അനുയോജ്യമാണ് നാലാമത്തെ വ്യാവസായിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവയും സ്വയം ഡ്രൈവിംഗ് കാറുകൾ വെർച്വൽ അസസ്മെന്റ് ട്രാൻസിഷണൽ സോഫ്റ്റ്വെയർ പുതിയ മരുന്നുകളുടെ കണ്ടെത്തൽ സാംസ്കാരിക താൽപ്പര്യത്തിന്റെ പ്രവചനം എന്നിവ സാധ്യമാക്കി ഇവ കൃത്രിമബുദ്ധിയുടെ ഉപയോഗത്തിലൂടെ സാധ്യമാണ്

സിരി ഇത് വളരെ സാമ്യമുള്ളതാണ് AI മെഷീൻ ലേണിംഗിന്റെ ശക്തി ഉപയോഗിച്ചുള്ള വോയ്സ് തിരയലാണിത് വ്യത്യസ്ത ഡ്രൈവറുകൾ ഉണ്ട് ഇവ അടിസ്ഥാനപരമായി ഈ മാറ്റം നയിക്കുന്നു ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം പുതിയ സാങ്കേതികവിദ്യകളുടെ ആമുഖം മെഗാ ട്രെൻഡുകളിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലെ പരിവർത്തനം സംഭവിക്കുന്നു ഭാവി പരിവർത്തനം ടിപ്പിംഗ് പോയിന്റുകൾ ഈ സാങ്കേതികവിദ്യകളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് എല്ലാം ഇപ്പോൾ സംഭവിക്കുന്നു ഈ മെഗാട്രെൻഡുകൾക്ക് കാരണം സമീപകാല സാങ്കേതികവിദ്യകളുടെ ആമുഖവും ഡിജിറ്റലൈസേഷന്റെയും വിവരസാങ്കേതികവിദ്യകളുടെയും വ്യാപകമായ സാധ്യതകൾ ഉപയോഗിക്കുന്നതോ പ്രയോജനപ്പെടുത്തുന്നതോ ആണ് യന്ത്രങ്ങളുടെ ഭൌതിക പരിവർത്തനം നിർമ്മാണ യന്ത്രങ്ങൾ ഡിജിറ്റൽ പരിവർത്തനം ഐ ടി ഇവ ഫിസിക്കൽ മെഗാട്രെൻഡുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ സ്വയംഭരണ വാഹനങ്ങൾ 3 ഡി പ്രിന്റിംഗ് നൂതന റോബോട്ടിക്സ് കണക്റ്റുചെയ്ത റോബോട്ടിക്സ് പുതിയ മെറ്റീരിയലുകൾ ഭാരം കുറഞ്ഞ വസ്തുക്കൾ വിലകുറഞ്ഞ വസ്തുക്കൾ ശക്തമായ മെറ്റീരിയലുകൾ എന്നിവയുണ്ട് സ്വയംഭരണ വാഹനങ്ങൾ ഇതിനകം സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വയംഭരണ ട്രക്കുകളും സ്വയംഭരണാധികാരമുള്ള ഡ്രോണുകളും ഉണ്ട് ഡ്രോണുകൾ അടിസ്ഥാനപരമായി സ്വയംഭരണാധികാരമുള്ള വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് അവിടെ സാധാരണയായി പൈലറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ പൈലറ്റോ മെഷീൻ പൈലറ്റോ ഇല്ല വിമാനങ്ങൾ ഡ്രൈവർ ഇല്ലാത്ത വിമാനങ്ങൾ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ് ഡ്രൈവറില്ലാത്ത ബോട്ടുകളും പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ ആളുകളും ഇപ്പോൾ ഡ്രൈവറില്ലാത്ത ട്രാക്ടറുകളുടെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ റോബോട്ടിക്സിലെ കൃത്രിമബുദ്ധിയുടെയും പുരോഗതിയുടെയും ആമുഖവും ഉപയോഗവും കൊണ്ട് ഇവയെല്ലാം സാധ്യമാണ് 3 ഡി പ്രിന്ററുകൾ അടിസ്ഥാനപരമായി ഈ യന്ത്രങ്ങൾക്ക് 3 ഡി പ്രിന്ററുകൾ ഏത് രൂപവും നൽകുന്നു നിർദ്ദിഷ്ട ആകൃതി അനുസരിച്ച് അവർ ഒരു പ്രത്യേക ഉൽപ്പന്നം നിർമ്മിക്കും 3 ഡി പ്രിന്ററുകൾക്ക് വിൻഡ് ടർബൈനുകളിലും മെഡിക്കൽ ഇംപ്ലാന്റുകളിലും ആപ്ലിക്കേഷനുകൾ ഉണ്ട് വിപുലമായ റോബോട്ടിക്സ് വ്യത്യസ്ത റോബോട്ടിക്സ് റോബോട്ടിക് ഉപകരണങ്ങൾ ബന്ധിപ്പിച്ച റോബോട്ടിക് ഉപകരണങ്ങൾ എന്നിവ ഓട്ടോമോട്ടീവ് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു റോബോട്ടിക് ശസ്ത്രക്രിയയ്ക്കായി വൈദ്യശാസ്ത്ര മേഖലയിലും റോബോട്ടുകൾ ഉപയോഗിക്കുന്നു റോബോട്ടിക് ശസ്ത്രക്രിയ അടിസ്ഥാനപരമായി ലോകമെമ്പാടും നടക്കുന്ന ഒന്നാണ് റോബോട്ടുകളും അവയുടെ കാർഷിക റോബോട്ടുകളുടെ ഉപയോഗവും നഴ്സിംഗിലെ ഉപയോഗവും കാർഷിക മേഖലകളിലെ ഓട്ടോമോട്ടീവ് വ്യവസായങ്ങളിൽ ഇപ്പോൾ വളരെ സാധാരണമായ ഒന്നാണ് കണക്റ്റഡ് റോബോട്ടിക്സ് നമ്മൾ തന്നെ ചില റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് കാർഷിക മേഖലയിൽ ചില വിത്തുകൾ നടും അതിനാൽ റോബോട്ടിക്സിന്റെയും കണക്റ്റുചെയ്ത റോബോട്ടുകളുടെയും പുരോഗതിയോടെ വിവിധ വ്യാവസായിക മുന്നണികളിൽ സംഭവിക്കുന്ന ഈ മുന്നേറ്റങ്ങളാണ് ഇവയെല്ലാം പുതിയ മെറ്റീരിയലുകൾ ഭാരം കുറഞ്ഞ വസ്തുക്കൾ ശക്തമായ വസ്തുക്കൾ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് എന്നിവ അടിസ്ഥാനപരമായി ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ് നാനോ ടെക്നോളജി ഗ്രാഫീൻ കാർബൺ നാനോട്യൂബുകൾ എന്നിവയുടെ ഉപയോഗം ഈ മെറ്റീരിയലുകളെ ഭാരം കുറഞ്ഞതും ശക്തവുമാക്കുന്നു വ്യോമയാന വ്യവസായങ്ങൾ പോലുള്ള വിവിധ ആപ്ലിക്കേഷൻ ഡൊമെയ്നുകളിൽ മറ്റ് നിർമ്മാണ വ്യവസായങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വ്യത്യസ്ത നൂതന ഗുണങ്ങളുള്ളവയാണ് ഈ ഡിജിറ്റൽ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സെൻസറുകൾ കണക്റ്റഡ് സെൻസറുകൾ കണക്റ്റഡ് ആക്യുവേറ്ററുകൾ എന്നിവയുടെ ആമുഖം ഇവയെല്ലാം ഇന്റർനെറ്റ് വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് RFID കൾ NFC കൾ പാക്കേജ് ഡെലിവറി ട്രാക്കിംഗ് സാധാരണയായി കൊറിയർ കമ്പനികൾ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഇത് വളരെ സാധാരണമാണ് ഈ നാലാമത്തെ വ്യാവസായിക വിപ്ലവത്തിൽ സങ്കീർണ്ണമായ വിതരണ ശൃംഖല നിരീക്ഷണ സംവിധാനങ്ങൾ എല്ലാം ഒരു യാഥാർത്ഥ്യമാണ് ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ ഉപയോഗവും മറ്റും യൂബർ പോലുള്ള കമ്പനികൾ ഗതാഗതത്തിന്റെ മാതൃകകൾ മാറ്റുകയാണ് കാർ പൂളിംഗ് ഈ കമ്പനികൾ നേടുന്ന വരുമാനം വർദ്ധിപ്പിച്ചു അതിനാൽ മൊത്തത്തിൽ ഇന്ധന ഉപഭോഗം കുറയുകയും തൽഫലമായി കാർ പൂളിംഗ് ഇന്ധന ഉപഭോഗം കുറയ്ക്കൽ വരുമാന വർദ്ധന എന്നിവയിലൂടെ പരിസ്ഥിതിയിലെ മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ വ്യത്യസ്ത കാറുകളും വാഹനങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്ന അർത്ഥത്തിൽ എല്ലാം വളരെ മികച്ചതാക്കുന്നു പരസ്പരം തൽക്ഷണം ഏത് കാർ എവിടെയാണ് ലഭ്യതയുടെ അവസ്ഥ എന്താണ് അനാവശ്യമായ മലിനീകരണത്തിൽ നിന്ന് പരിസ്ഥിതി സംരക്ഷിക്കൽ ഇവയെല്ലാം ഇപ്പോൾ സാധ്യമാണ് ജീൻ സീക്വൻസിംഗ് ഡിഎൻഎ റൈറ്റിംഗ് ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങൾ എന്നിങ്ങനെ വിവിധ സാങ്കേതികവിദ്യകൾ ജൈവിക പരിവർത്തനങ്ങൾ സ്വീകരിക്കുന്നു അതിനാൽ ഫിസിയോളജിക്കൽ ഡൊമെയ്നിലെ ശുപാർശിത സംവിധാനം നിങ്ങൾ ഒരു തന്മാത്രാ നില ഒരു മനുഷ്യന്റെ ഘടന എന്നിവയെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും മികച്ച കൃത്യമായ മരുന്ന് ഏതാണ് നിർദ്ദിഷ്ട മനുഷ്യന് നൽകണം ഇപ്പോൾ നിർമ്മിച്ച വ്യത്യസ്ത നൂതന സംവിധാനങ്ങളുടെ ഉപയോഗത്തിലൂടെ ശുപാർശകൾ വരാം സെൽ പരിഷ്ക്കരണം ഇപ്പോൾ സാധ്യമാണ് കൂടാതെ വിപുലമായ ജനിതക എഞ്ചിനീയറിംഗ് ഒരു യാഥാർത്ഥ്യമാണ് ടിപ്പിംഗ് പോയിന്റുകൾ അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ അതിനാൽ അടിസ്ഥാനപരമായി 2025 ഓടെ വ്യത്യസ്ത വസ്ത്രങ്ങൾ വ്യത്യസ്ത തുണിത്തരങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുമെന്ന് നമ്മൾപ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പരിധിയില്ലാത്തതും സൌജന്യവുമായ സ്റ്റോറേജ് ലഭ്യമാണ് ഇന്റർനെറ്റുമായി കണക്റ്റുചെയ്തിരിക്കുന്ന ട്രില്യൺ കണക്കിന് സെൻസറുകൾ ഉണ്ടാകും കൂടാതെ നമുക്ക് ഒരു ലോകം ഉണ്ടാകും അവിടെ ചില റോബോട്ടിക് ഫാർമസിസ്റ്റുകൾ ഉണ്ടാകും അത് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിൽ സഹായിക്കാൻ പോകുന്നു ഇതോടെ നമ്മൾനാലാമത്തെ വ്യാവസായിക വിപ്ലവ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഈ നാലാമത്തെ വ്യാവസായിക വിപ്ലവം എന്താണ് നമ്മൾ മുമ്പ് കണ്ട മൂന്ന് വ്യാവസായിക വിപ്ലവങ്ങൾ എന്തായിരുന്നുവെന്ന് നമ്മൾമനസ്സിലാക്കി ഈ നാലാമത്തെ വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ സ്വയം ഡ്രൈവിംഗ് കാറുകൾ AI പോലുള്ള സിരി പ്രവർത്തനക്ഷമമാക്കിയ സാങ്കേതികവിദ്യകൾ എന്നിവയിൽ വന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് കണക്റ്റുചെയ്ത റോബോട്ടുകൾ ഒറ്റപ്പെട്ട റോബോട്ടുകൾ സ്മാർട്ട് റോബോട്ടുകൾ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ കൃഷി മെഡിക്കൽ വ്യവസായങ്ങൾ നിർമ്മാണ വ്യവസായങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആപ്ലിക്കേഷൻ ഡൊമെയ്നുകളിൽ ഉപയോഗിക്കുന്നു ഭാവിയിൽ വരാൻ പോകുന്ന സാങ്കേതികവിദ്യകളും ലോകമെമ്പാടുമുള്ള ആളുകളും അക്കാദമിയിലെ വിവിധ ലാബുകളിലും വ്യവസായ ഗവേഷണ വികസന വ്യവസായങ്ങളിലും നടക്കുന്ന ധാരാളം ഗവേഷണ പദങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കടന്നുപോയി ഈ പരിവർത്തനങ്ങൾ ക്രമേണ എങ്ങനെ സംഭവിക്കുന്നുവെന്നും ഈ സംഭവിക്കുന്ന എല്ലാ പരിവർത്തനങ്ങളുടെയും പ്രയോജനം എന്താണെന്നും നമ്മൾകണ്ടു ഇതോടൊപ്പം നമ്മൾ അവസാനിപ്പിക്കുന്നു ഇവയിലേതെങ്കിലും കൂടുതലായി അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന ഈ പരാമർശങ്ങളിൽ ചിലത് ഇവയാണ് നിങ്ങൾ ഇൻറർനെറ്റിൽ തിരയുകയോ അല്ലെങ്കിൽ ഇവിടെ ലിസ്റ്റുചെയ്തിരിക്കുന്ന പ്രസക്തമായ പുസ്തകങ്ങൾ കാണുകയോ ചെയ്താൽ കൂടുതൽ റഫറൻസുകൾ ഉണ്ട് ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു